ഈ കോഴ്സിലെ അവസാന ലെക്ച്ചറിലേക്കു സ്വാഗതം ഈ ട്യൂട്ടോറിയലിലും കഴിഞ്ഞ ട്യൂട്ടോറിയൽ 4 ലെ പോലെ നാം S പാരാമീറ്റർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് പ്രോബ്ലം ആദ്യത്തെ പ്രോബ്ലം എന്നത് താഴെ ഉള്ള കാസ്കേഡ് നെറ്റ്വർക്കിന്റെ ആകെ ഉള്ള S പാരാമീറ്റർ കണ്ടു പിടിക്കുക എന്നതാണ് തീർച്ചയായും ഇവിടെ രണ്ടു നെറ്റ്വർക്ക് ആണ് ഉള്ളത് അത് ഒരു ടീ നെറ്റ്വർക്ക് ഒരു പൈ നെറ്റ്വർക്കുമായി കാസ്കേഡ് ചെയ്തിരിക്കുന്നു ഈ നെറ്റ്വർക്ക് വാല്യൂ തന്നിരിക്കുന്നു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്നത് 50 ഓം ആണ് ഇത് കാസ്കേഡ് ചെയ്തിരിക്കുന്ന രണ്ടു നെറ്റ്വർക്ക് ആയതിനാൽ വളരെ എളുപ്പമാണ് നമുക്ക് അതിനെ ABCD മാട്രിക്സ് ആയി പരിവർത്തനം ചെയ്യാം അപ്പോൾ ആ തുല്യ നെറ്റ്വർക്കിന്റെ ABCD മാട്രിക്സ് എന്നത് ഇങ്ങനെ എഴുതാം ഇനി ഒരു ടീ നെറ്റ്വർക്കിന്റെ ABCD പാരാമീറ്റർ നമുക്ക് എളുപ്പത്തിൽ കണ്ടു പിടിക്കാം ഇതാണ് നിങ്ങളുടെ B ഇത് ഒരു ടെക് ലെവൽ ആയ അറിവാണ് ആദ്യ നെറ്റ്വർക്ക് എന്നത് ടീ നെറ്റ്വർക്ക് ആണ് അതിന്റെ ABCD മാട്രിക്സ് കണ്ടുപിടിക്കുക പിന്നെ ഈ പൈ നെറ്റ്വർക്ക് ഒന്നുകിൽ ടീ നെറ്റ്വർക്ക് ആയി പരിവർത്തനം ചെയ്യാം എന്നിട്ടു ABCD മാട്രിക്സ് കണ്ടെത്താം ഇത് രണ്ടും നാം കണ്ടെത്തി അപ്പോൾ ആകെ ABCD മാട്രിക്സ് എന്നത് ഇതാണ് ഈ ABCD മാട്രിക്സ് നമുക്ക് S മാട്രിക്സ് ആക്കി ഇങ്ങനെ മാറ്റാം അത് നിങ്ങൾ S ൽ നിന്നും ABCD യിലേക്ക് മാറ്റിയാൽ ഈ ABCD പാരാമീറ്ററിന്റെ ഉപയോഗം കണ്ടുപിടിക്കാനാവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്കു പോകാം ഒരു ലോസ് ലെസ്സ് ഡയറക്ഷണൽ കപ്ലറിന്റെ സ്കേറ്ററിങ് മാട്രിക്സ് തന്നിരിക്കുന്നു ഇനി അതിന്റെ സവിശേഷതകൾ ആയ ഡയറക്ടിവിറ്റി കപ്ലിങ് ഫാക്ടർ പിന്നെ ഐസൊലേഷൻ എന്നിവ കണ്ടെത്തുക ഇവിടെ മനപ്പൂർവം ഒരു വാല്യൂ തന്നിട്ടില്ല അത് ആണ് അത് അല്ലെങ്കിൽ എന്ത് ആണെങ്കിലും അതിനെ ഇപ്പോൾ x എന്ന് വിളിക്കുക എന്നാൽ നമുക്കറിയാം ഇത് ലോസ് ലെസ്സ് ആണ് അപ്പോൾ മാട്രിക്സ് എന്നത് യൂണിറ്ററി ആണ് യൂണിറ്ററി എന്നതിന്റെ അർഥം ഈ കോളത്തിന്റെ സെല്ഫ് കോൺജ്യൂഗെറ്റ് എന്നത് 1 ആയിരിക്കും അപ്പോൾ ആദ്യ കോളം എന്നത് നമുക്ക് ഇങ്ങനെ പറയാം അതിൽ നിന്നും ഈ x ന്റെ വാല്യൂ എന്നത് 0 22 എന്ന് കിട്ടും ഇനി ഒരു സിമെട്രിക് കപ്ലറിൽ ഇത് ഒരു പൊതുവായ വാല്യൂ ആണ് നാം താരതമ്യം ചെയ്തു ഈ പിന്നെ എന്നീ വാല്യൂ കൂടി ലഭിക്കുന്നതാണ് നമുക്ക് കപ്ലിങ് ഫാക്ടർ ഉണ്ട് അതിന്റെ ഫോർമുല നാം കഴിഞ്ഞ ലെക്ച്ചറുകളിൽ കണ്ടതാണ് അത് ആണ് അപ്പോൾ നിങ്ങൾക്കു അത് 9 9 dB ആണെന്ന് കണ്ടെത്താം ഡയറക്ടിവിറ്റി എന്നത് ആണ് 25 dB ഐസൊലേഷൻ അത് dB സ്കെയിലിൽ ഉറപ്പിക്കാനാകും നമുക്കറിയാം ആണെന്ന് ഇവിടെ D എന്നത് 3 25 പിന്നെ C എന്നത് 9 അതിനാൽ അവയുടെ തുക 13 15 ആണ് അതാണ് I അപ്പോൾ നമുക്ക് പറയാം ഈ ഡയറക്ഷണൽ കപ്ലർ നല്ലതല്ല അതിന്റെ കപ്ലിങ് പവർ 10 dB ആണെങ്കിലും അതിന്റെ ഡയറക്ടിവിറ്റി കുറവാണ് അതിന്റെ അർഥം അതിനു റിഫ്ലെക്ടഡ് വേവ് ഉദ്ദേശിച്ച രീതിയിൽ കുറയ്ക്കാനാകില്ല എന്നാണ് പിന്നെ അതിന്റെ ഐസൊലേഷൻ കുറവാണ് 13 dB ഐസൊലേഷൻ എപ്പോഴും നല്ലതല്ല എന്തെന്നാൽ അതിന്റെ ഡയറക്ടിവിറ്റി കുറവാണ് എന്നാൽ ഡയറക്ടിവിറ്റി ഒരു 30 40 dB ആണെങ്കിൽ പറയാമായിരുന്നു ഐസൊലേഷൻ കൂടിയേനെ എന്ന് ഇനി നമുക്ക് ഒരു മാജിക് റ്റി പ്രോബ്ലത്തിലേക്കു വരാം എല്ലാ പോർട്ടുകളും മാച്ച് ആണെങ്കിൽ റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി കുറച്ചു പവർ പോർട്ട് 1 ൽ കൊടുത്താൽ അതിന്റെ 40 ശതമാനം പോർട്ട് 2 ൽ നിന്നും പിന്നെ 40 ശതമാനം പോർട്ട് 3 ൽ നിന്നും വരുന്നു അതുപോലെ പോർട്ട് 2 പോർട്ട് 3 എന്നിവയിലെ ഫേസ് ഒരുപോലെ ആണ് എന്നാൽ പവർ പോർട്ട് 4 ൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ 40 ശതമാനം പോർട്ട് 2 ൽ നിന്നും പിന്നെ 40 ശതമാനം പോർട്ട് 3 ൽ നിന്നും വരുന്നു എന്നാൽ പോർട്ട് 3 ലെ സിഗ്നൽ പോർട്ട് 2 ആയി 180 ഫേസ് ഡിഫറെൻസ് ഉണ്ട് നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആണ് ഇതിന്റെ S മാട്രിക്സ് കണ്ടുപിടിക്കുക ഈ നാലു പോർട്ടുകളും മാച്ച് ആകുമ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഉറപ്പായും പറയാം മാട്രിക്സിന്റെ ഈ നാലു ഡയഗണൽ എലെമെന്റുകൾ 0 ആയിരിക്കും അപ്പോൾ അത് മാറ്റി ഇനി ഓർക്കേണ്ടത് ഇവിടെ ഒരു 180 ഡിഗ്രി വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് എടുക്കാനാകും ഇനി ഇത് ഒരു ലോസ് ലെസ്സ് ഉപകരണം ആണെന്ന കാര്യം ഇവിടെ പ്രായോഗിക്കാം അപ്പോൾ യൂണിറ്ററി സവിശേഷത ഉപയോഗിച്ചു നമുക്ക് പിന്നെ അതുപോലെ എന്നിവയും കണ്ടുപിടിക്കാം പിന്നെ 40 ശതമാനം പവർ എവിടെയോ പോകുന്നു എന്ന് പറയുന്നു അത് പവറിന്റെ രീതിയിൽ ആണ് എന്നാൽ S മാട്രിക്സ് എന്നത് വോൾടേജ് ആണ് അതിനാൽ ആണ് രണ്ടാമത്തെ റോ യൂണിറ്ററി സവിശേഷത പ്രയോഗിച്ചാൽ നമുക്ക് കിട്ടും പോലെ മറ്റു വാല്യൂ നമുക്ക് കിട്ടും ആവശ്യത്തിന് വിവരം നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് സിമെട്രിയിൽ ആണ് എന്ന കാര്യം ഓർമിക്കുക ഈ യൂണിറ്ററി സവിശേഷത ആണ് ഇതെല്ലാം തന്നത് ഇനി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഉള്ള ടീ മാട്രിക്സ് നോക്കുക ഇത് ലോഡ് ചെയ്തിരിക്കുന്നു അതിന്റെ അർഥം ബന്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ എന്നതും ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൽ നിന്നും റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് കണ്ടെത്തുക പിന്നെ ഇൻപുട് ഔട്ട്പുട്ട് സോഴ്സ് പിന്നെ ലോഡ് ഇമ്പിഡൻസുകൾ 50 ഓം ആണ് നെറ്റ്വർക്കിന്റെ S മാട്രിക്സ് നാം നേരത്തെ കണ്ടുപിടിച്ചതാണ് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ S മാട്രിക്സ് ഇത് പോലെ ആയിരിക്കും 0 89 0 പിന്നെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നു ഇനി ഈ ഇൻപുട് സൈഡ് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിച്ച് ഇൻപുട് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എങ്ങനെ കണ്ടെത്താം എന്ന് മുമ്പ് നാം കണ്ടിട്ടുണ്ട് അത് ഇങ്ങനെ ആണ് അതുപോലെ എന്നതും ഇതിൽ നിന്നും കണ്ടെത്താം എന്നാൽ എന്നിവ കണ്ടെത്തണമെങ്കിൽ വേണ്ടതാണ് ഈ എന്നത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് അതുപോലെ ഇൻപുട് ഇമ്പിഡൻസ് എന്നതും ആവശ്യമാണ് ഇനി ഇൻപുട് ഇമ്പിഡൻസ് നോക്കാം ഈ ഇൻപുട് ഇമ്പിഡൻസ് 8 56 എന്നത് ഈ ആകെ സംഗതിക്കു സീരീസ് ആണ് എന്ന് പറയാം അത് ഈ 141 8 നു പാരലൽ ആണ് പിന്നെ ഈ രണ്ടെണ്ണത്തിന്റെ സീരീസ് അത് ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നു ഈ S മാട്രിക്സിൽ ഇത് 50 ഓം ആണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്നത് 50 ഓം ആണ് പിന്നെ നോക്കിയാൽ മനസ്സിലാകും എന്നതും 50 ഓം ആണ് അപ്പോൾ എന്നത് 0 ആണ് എന്നതും 0 ആണ് അപ്പോൾ അത് രണ്ടും 0 ആക്കി ഇവിടെ കൊടുത്താൽ അത് ആകുന്നു അതുപോലെ ഇത് അങ്ങനെ എല്ലാം കഴിഞ്ഞു എല്ലാ പ്രോബ്ലവും കാണിച്ചു കഴിഞ്ഞു ഈ ലെക്ചർ സീരിസിൽ നാം മൂന്നു ടൂളുകൾ ആണ് പരിചയപ്പെട്ടത് പിന്നെ അതിന്റെ പല ആപ്ലിക്കേഷനുകളും പിന്നെ ഈ ട്യൂട്ടോറിയലിൽ ധാരാളം പ്രോബ്ലം സോൾവ് ചെയ്തു ഇത് നിങ്ങളുടെ ഭാവി ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്